മാഗ്നറ്റിക് മെറ്റീരിയലുകൾ 1 ശൂന്യമായ സ്ഥലത്ത് വെക്റ്റർ പൊട്ടൻഷ്യലും കാന്തികക്ഷേത്രവും കണക്കാക്കിയ ശേഷം ഇപ്പോൾ നമുക്ക് കാന്തിക വസ്തുക്കളിലേക്ക് പോകാo അവിടെ ഫീൽഡുകൾ എങ്ങനെ കണക്കാക്കാമെന്ന് കാണുകയും ചെയ്യാം ധ്രുവീകരിക്കാവുന്ന വസ്തുക്കളെയും ഡൈലക്ട്രിക്സിനെയും കുറിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് സാഹചര്യങ്ങൾക്കായി നമ്മൾ നടത്തിയ ചർച്ച ഒന്ന് ഓർക്കാം അതുപോലെ നമുക്ക് കാന്തിക വസ്തുക്കൾ ഉണ്ട് അവ കാന്തിക മണ്ഡലത്തിൽ വയ്ക്കുകയാണെങ്കിൽ അവ കാന്തികമാവുകയും ഒരു ഡൈപോൾ മൊമെന്റ് വികസിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും ലളിതമായ ഉദാഹരണം ഞാൻ ഒരു കാന്തത്തിനടുത്ത് ഒരു പിൻ കൊണ്ടുവന്നാൽ അത് ആകർഷിക്കപ്പെടും എന്തുകൊണ്ടാണ് ഇത് ആകർഷിക്കപ്പെടുന്നത് കാരണം ഈ കാന്തിക മണ്ഡലം ഒരു മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ ഒരു കാന്തം ഈ പിന്നിൽ തന്നെ വികസിപ്പിക്കുകയും പിൻ യഥാർത്ഥ കാന്തത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു വ്യക്തമായും S N അറ്റങ്ങൾ ഇതുപോലെയായിരിക്കുന്ന ഒരു കാന്തത്തിൽ വികസിക്കുന്നു അതിനാൽ ഇത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഈ മീഡിയയുടെ അല്ലെങ്കിൽ കാന്തിക വസ്തുക്കളുടെ മാഗ്നറ്റിക് മൊമെന്റ് പ്രയോഗിച്ച ഫീൽഡുകളുമായി കണക്കാക്കാനോ ബന്ധപ്പെടുത്താനോ നമുക്ക് കഴിയും അതിനാൽ ആരംഭിക്കുന്നതിനായി ഞാൻ ആദ്യം ചെയ്യുന്നത് വിഷയം വികസിപ്പിക്കുക എന്നതാണ് ഞാൻ ആദ്യം ഒരു പോയിന്റ് മാഗ്നറ്റിക് ഡൈപോളിഉനുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ കണക്കാക്കും കാരണം ഒടുവിൽ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ്നെ വ്യാഖ്യാനിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ നമ്മൾ അത് ബന്ധിതമായ വൈദ്യുതധാരകളിലൂടെയും മറ്റും ചെയ്യും അതിനായി ഒരു ചെറിയ മാഗ്നറ്റിക് ഡൈപോളിന് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയേണ്ടത് പ്രധാനമാണ് ഇവിടെ എന്റെ അവകാശവാദം എന്താണെന്നാൽ ഇവിടെ പോയിന്റ് r ൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ട് ഉത്ഭവസ്ഥാനത്ത് ഇരിക്കുന്ന പോയിന്റ് ഡൈപോൾ μ04π m ക്രോസ് ഓവർ r ക്യൂബ് ചെയ്തതിന് തുല്യമാണ് Ar04πmrr3 ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഉത്ഭവസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു പോയിന്റ് ഡൈപോൾ മൂലമുള്ള r എന്ന പോയിൻറ്ലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ 1 ഓവർ 4 പൈ എപ്സിലോൺ 0 P ഡോട്ട് r ഓവർ r ക്യൂബ് ചെയ്തതായി ഓർക്കുന്നത് പോലെയാണ് ഇത് അതിനാൽ നിങ്ങൾ കാന്തികക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് ഈ ഡോട്ട് ഉൽപന്നം ഒരു ക്രോസ് ഉൽപന്നവും കൂടാതെ മാഗ്നറ്റിക് ഡൈപോളിന് പകരം വൈദ്യുത ഡൈപോളായി മാറുന്നു ഇപ്പോൾ എനിക്ക് ഒരു മാഗ്നറ്റിക് ഡൈപോൾ m ഉണ്ട് അതിനാൽ നമുക്ക് ഇത് പരിശോധിക്കാം

rr3 അതിനാൽ ഞങ്ങൾ പറയുന്നു ഒരു മാഗ്നറ്റിക് ഡൈപോൾ m ഉത്ഭവസ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ ഇതുമൂലമുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ mu 0 ഓവർ 4 പൈ m ക്രോസ് r ഓവർ r ക്യൂബ് ചെയ്തതാണ് ഞാൻ ഇത് എങ്ങനെ പരിശോധിക്കും ഈ വെക്റ്റർ പൊട്ടൻഷ്യൽ എനിക്ക് ഒരു പോയിന്റ് ഡൈപോളിൻറെ ഫീൽഡിൻറെ curl ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും ഇത് mu 0 ഓവർ 4 പൈ 3 m ഡോട്ട് r യൂണിറ്റ് വെക്റ്റർ r യൂണിറ്റ് വെക്റ്റർ മൈനസ് m ഹരണം R ക്യൂബ് A യുടെ curl എനിക്ക് ഇത് നൽകുന്നു

rr mr3 അതിനാൽ ഞാൻ A യുടെ curl എടുക്കുമ്പോൾ അത് എനിക്ക് mu 0 ഓവർ 4 പൈയും m ക്രോസ് പ്രോഡക്റ്റ് r ൻറെ curl ഓവർ r ക്യൂബ് നൽകുന്നു ഇപ്പോൾ ഞാൻ curl A ക്രോസ് B യുടെ ഈ ഐഡന്റിറ്റി ആണ് ഉപയോഗിക്കാൻ പോകുന്നത് A യിൽ പ്രവർത്തിക്കുന്ന B ഡോട്ട് ഡെൽ ഓപ്പറേറ്റർ മൈനസ് B യിൽ പ്രവർത്തിക്കുന്ന A ഡോട്ട് ഡെൽ ഓപ്പറേറ്റർ പ്ലസ് A ഡൈവേർജൻസ് B മൈനസ് B ഡൈവേർജൻസ് A ഈ സാഹചര്യത്തിൽ ഞാൻ A വെക്ടറിനെ m ആയി എടുക്കുന്നു ഇത് ഒരു സ്ഥിരമായ വെക്റ്ററും B വെക്ടർ എന്നാൽ r ഓവർ r ക്യൂബിന് തുല്യവും ഇത് 1 ഓവർ r ഗ്രേഡിയന്റ്ന് തുല്യവുമാണ്

A A BA B B A AmBrr3 1r ഇപ്പോൾ A ഒരു സ്ഥിരമായ വെക്റ്റർ ആയതിനാൽ ഈ ഭാഗം ഇല്ലാതാകുന്നു അതിനാൽ നമ്മുടെ കാര്യത്തിൽ A യുടെ curl എനിക്ക് mu 0 ഓവർ 4 പൈ സമയം 0556 കാണുക B യിൽ പ്രവർത്തിക്കുന്ന മൈനസ് m ഡോട്ട് ഡെൽ r ക്യൂബ്ഡ് പ്ലസ് mu 0 ഓവർ 4 പൈ m ഡൈവേർജൻസ് r ഓവർ r ക്യൂബിന് തുല്യമായിരിക്കും ഇപ്പോൾ r ൻറെ മൂല്യം 0 ന് തുല്യമല്ലാത്ത അവസരങ്ങളിൽ അതിന്റെ അർത്ഥം ഉത്ഭവത്തിൽ നിന്ന് അകലെ അല്ലെങ്കിൽ r ക്യൂബ് ഓവർ r ൻറെ കാന്തിക വ്യതിചലനത്തിൽ നിന്ന് അകലെ ഇതിൻറെ മൂല്യം 0 ആണ് എന്നാണ് ഇതിൻറെ അതിനാൽ ഇത് പുറത്തുപോകുന്നു അതിനാൽ എനിക്ക് ശേഷിക്കുന്ന ബി r എന്നത് mu 0 ഓവർ 4 പൈ മൈനസ് m ഡോട്ട് ഡെൽ r ഓവർ r ക്യൂബിന് തുല്യമാണ് ഇവിടെ m ഡോട്ട് ഡെൽ എന്നാൽ m x പാർഷ്യൽ x പ്ലസ് m y പാർഷ്യൽ y പ്ലസ് m z പാർഷ്യൽ z അല്ലാതെ മറ്റൊന്നുമല്ല നമുക്ക് ഒരു പദം കണക്കാക്കാം അത് അത് മറ്റ് പദങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊരു സൂചന നൽകും

rr3 m mx∂xmy∂ymz∂z അതിനാൽ നമുക്ക് m x പാർഷ്യൽ x r ഓവർ r ക്യൂബ് കണക്കാക്കാം ഇത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ റേയ്സ് ടു 3 2 x യൂണിറ്റ് x ദിശയിലും പ്ലസ് y യൂണിറ്റ് y ദിശയിലും പ്ലസ് z യൂണിറ്റ് z ദിശയിലും ആയതിനെ m x പാർഷ്യൽ x ചെയ്തതിനു തുല്യമാണ് ഇതെനിക്ക് m x ഗുണനം x യൂണിറ്റ് വെക്റ്റർ ഓവർ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ റേയ്സ് ടു 3 2 മൈനസ് 3 2 ഗുണനം 2 x തവണ x ഓവർ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ റേയ്സ് ടു 5 2 x ദിശയിലും മൈനസ് 32 ഗുണനം 2 x തവണ y ഓവർ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ റേയ്സ് ടു 5 2 y ദിശയിലും മൈനസ് 32 ഗുണനം 2 x തവണ z ഓവർ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ റേയ്സ് ടു 5 2 z ദിശയിലും ആയി ലഭിക്കുന്നു

xxx2y2z252 322xyyx2y2z252 322xzzx2y2z252 ഒരു സമാനപദം നോക്കാം ഈ പദം z നെ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ലഭിക്കുന്നത് രണ്ടാമത്തെ പദം ഇവിടെ ഈ പദം ഈ y പദത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ലഭിക്കുന്നത് ആദ്യ രണ്ട് പദങ്ങൾ ആദ്യത്തേതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ലഭിക്കുന്നത് നമുക്ക് എന്താണ് അവശേഷിക്കുന്നത് ഞാൻ x ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെനിക്ക് m x x യൂണിറ്റ് വെക്ടർ ഓവർ r ക്യൂബ് മൈനസ് മുമ്പു ചെയ്തത് നോക്കുകയാണെങ്കിൽ ചില പദങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഈ 2 എല്ലായിടത്തും ഒഴിവാക്കുന്നു ഈ 2 എല്ലായിടത്തും ഒഴിവാക്കുന്നു ഈ 2 എല്ലായിടത്തും ഒഴിവാക്കുന്നു എനിക്ക് 3 x സ്ക്വയർ x യൂണിറ്റ് വെക്റ്റർ പ്ലസ് 3 x y y യൂണിറ്റ് വെക്റ്റർ പ്ലസ് 3 x z z യൂണിറ്റ് വെക്റ്റർ ഓവർ r റേയ്സ് ടു 5 ഗുണനം m x എന്ന് ലഭിക്കുന്നു അതിനാൽ എനിക്ക് ഇതിനെ m x x യൂണിറ്റ് വെക്ടർ ഹരണം r ക്യൂബ്ഡ് മൈനസ് 3 m ഡോട്ട് x യൂണിറ്റ് വെക്റ്റർ അതായത് m x എനിക്ക് x നെ പുറത്തെടുത്താൽ പിന്നീട് അവശേഷിക്കുന്നത് x x പ്ലസ് y y പ്ലസ് z z വെക്ടർ ഓവർ r റേയ്സ് ടു 5 ആണ് അതുപോലെ ഇപ്പോൾ ഞാൻ m y പാർഷ്യൽ y r ഓവർ r ക്യൂബ് എടുത്താൽ m y y ഓവർ r ക്യൂബ്ഡ് മൈനസ് 3 m ഡോട്ട് y y ലഭിക്കുന്നു ഈ x x പ്ലസ് y y പ്ലസ് z z ഞാൻ r വെക്റ്ററായി എഴുതുന്നു അത് ഹരണം r റേയ്സ് ടു 5 ആയി എഴുതുന്നു അവസാനം m z പാർഷ്യൽ z r ഓവർ r ക്യൂബ് എടുത്താൽ m z z ഓവർ r ക്യൂബ്ഡ് മൈനസ് 3 m ഡോട്ട് z z r ഓവർ r റേയ്സ് ടു 5 ആയി ലഭിക്കുന്നു

xxxxyyzzr5mxxr3 3m

zzrr5 ഞാൻ ആദ്യ പദം എഴുതട്ടെ അതെന്താണെന്നാൽ ആദ്യ പദം m x dd x r ഓവർ r ക്യൂബ്ഡ്നു തുല്യമാണ് ഞാൻ ഇതെല്ലാം കൂടി തുകയായി എഴുതിയാൽ എനിക്ക് m ഡോട്ട് ഡെൽ r ഓവർ r ക്യൂബ് ലഭിക്കും ഇടത് വശത്ത് കൃത്യമായി പറഞ്ഞാൽ m x x പ്ലസ് m y y പ്ലസ് m z z എന്നിവയ്ക്ക് തുല്യമാണ് അത് എനിക്ക് m വെക്റ്റർ ഓവർ r ക്യൂബ് മൈനസ് m ഡോട്ട് x യൂണിറ്റ് വെക്ടർ x y യൂണിറ്റ് വെക്ടർ y z യൂണിറ്റ് വെക്ടർ z നൽകുന്നു അതായത് 3 m ഡോട്ട് r വെക്ടർ തവണ r ഓവർ r റേയ്സ് ടു 5 ആയി ലഭിക്കുന്നു m rr3mr3 3m rrr5 അതിനാൽ എല്ലാം കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഡെൽ ക്രോസ് A ഉപയോഗിച്ച് ആരംഭിക്കാം അത് ഡെൽ ക്രോസ് m ക്രോസ് r ഓവർ r ക്യൂബിന് തുല്യമാണ് അത് മൈനസ് ആകുന്നു അതായത് r പൂജ്യത്തിനു തുല്യമല്ലാത്ത അവസരങ്ങളിൽ mu 0 ഓവർ 4 പൈ m ഡോട്ട് ഡെൽ r ഓവർ R ക്യൂബ്ഡ് എന്ന് ലഭിക്കുന്നു ഇത് മൈനസ് mu 0 ഓവർ 4 പൈ അകത്ത് m ഓവർ r ക്യൂബ്ഡ് മൈനസ് 3 m ഡോട്ട് r വെക്റ്റർ r വെക്റ്റർ ഹരണം r റേയ്സ് ടു 5 ആണ് അതിനെ എനിക്ക് mu 0 ഓവർ 4 പൈ 3 m ഡോട്ട് യൂണിറ്റ് വെക്റ്റർ r യൂണിറ്റ് വെക്റ്റർ ആർ എന്നിങ്ങനെ വീണ്ടും എഴുതാം അതിനാൽ r സ്ക്വയർ പുറത്തെടുക്കുന്നു അതിനാൽ ഇപ്പോൾ ഛേദത്തിൽ അവശേഷിക്കുന്നത് r ക്യൂബ് മൈനസ് m ഓവർ r ക്യൂബ് ഇത് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് ഡൈപോളിന് B യുടെ അതേ മൂല്യമാണ് അതിനാൽ നമ്മൾ കണ്ടെത്തിയത് ഉത്ഭവസ്ഥാനത്ത് ഇരിക്കുന്ന m എന്ന ഒരു പോയിന്റ് ഡൈപോൾ ഉണ്ടെങ്കിൽ ഇത് എനിക്ക് ഒരു വെക്റ്റർ ഫീൽഡ് r നൽകുന്നു ഇത് A r അതായത് mu 0 ഓവർ 4 പൈ m ക്രോസ് r ഓവർ r ക്യൂബ് ചെയ്തതിന് തുല്യമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഇവിടെ ഉത്ഭവ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വൈദ്യുത ഡൈപോളിൻറെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ P ഡോട്ട് r ഓവർ r ക്യൂബിനു തുല്യമാണ്

rr mr3 ∴Ar04πmrr3 ഇപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്പർ 1 ഒരു ചെറിയ കറന്റ് വഹിക്കുന്ന ലൂപ്പ് ഞാൻ ചെറുത് എന്താണെന്ന് വ്യക്തമാക്കാം ഒരു മാഗ്നെറ്റിക് ഡൈപോൾ m ന് തുല്യമാണ് കറൻറ് തവണ വെക്റ്റർ a ലൂപ്പിന്റെ വെക്റ്റർ A ഉള്ള പ്രദേശം നിലവിലെ ദിശ എതിർ ഘടികാരദിശയിലാണെങ്കിൽ A വീണ്ടും കറൻറ് ദിശയിൽ നിന്നും ലഭിക്കുന്നു A യുടെ ദിശ പുറത്തേക്ക് ആയിരിക്കും കറൻറ് ഘടികാരദിശയിലാണെങ്കിൽ A യുടെ പ്രദേശം അകത്തേക്ക് പോകും ഇതുമൂലമുള്ള വെക്റ്റർ പൊട്ടൻഷ്യലുകൾ നമ്മൾ കണക്കാക്കുകയും വീണ്ടും ഇതുപോലുള്ള ഒരു മാഗ്നെറ്റിക് ഡൈപോളിൽ നിന്ന് പുറത്തുവരുന്നതുപോലെ വെക്റ്റർ പൊട്ടൻഷ്യലുകൾ പോകുന്നുവെന്ന് കാണിക്കുകയും ചെയ്യും അതിനാൽ ഒരു കറൻറ് വിതരണത്തിന് A r എന്നാൽ mu 0 ഓവർ 4 പൈ ഇന്റഗ്രൽ j r പ്രൈം ഓവർ r മൈനസ് r പ്രൈം d v പ്രൈo ആയിരിക്കും നമുക്ക് ഒരു കറന്റ് വഹിക്കുന്ന വയർ എടുക്കാം ഞാൻ ഇത് കുറച്ച് കട്ടിയുള്ളതാക്കട്ടെ ഈ ക്രോസ് സെക്ഷൻ അവസാന പോയിന്റ് A യിൽ വരട്ടെ ഇതാണ് കറൻറ് ദിശ d l നമ്മൾ മുൻപ് i മുതൽ j വരെയാണ് വന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് i ലേക്ക് മടങ്ങാൻ പോകുന്നു അതിനാൽ ഞാൻ ഇത് mu 0 ഓവർ 4 പൈ j വെക്റ്റർ r പ്രൈം d v പ്രൈo എന്ന് എഴുതാം ഞാൻ ആ വിസ്തീർണ്ണം A ആയി എഴുതുന്നു d v പ്രൈമിനെ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന വയറിൻറെ ക്രോസ് സെക്ഷണൽ ഏരിയ a തവണ d l നെ r മൈനസ് r പ്രൈം കൊണ്ട് ഹരിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ വെക്റ്റർ ചിഹ്നം ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നു ഞാൻ അത് dl j a എന്നിവയിലേക്ക് മാറ്റും കാരണം എനിക്കറിയാം A എന്നത് I കറൻറ് വഹിക്കുന്ന ദിശയിലേക്ക് ലംബമായിരിക്കുന്ന ക്രോസ് സെക്ഷണൽ വിസ്തീർണ്ണം ആണെന്ന് അതിനാൽ എനിക്ക് ഇത് mu 0 I ഓവർ 4 പൈ ഇന്റഗ്രൽ dl പ്രൈം വെക്റ്റർ ഓവർ r മൈനസ് r പ്രൈം എന്ന് എഴുതാം ഇതാണ് കറന്റ് I വഹിക്കുന്ന ഒരു വയർ കാരണം ഉണ്ടാകുന്ന A r

adl|r r|0I4πdl|r r| അതിനാൽ r ൽ ഒരു കറന്റ് വഹിക്കുന്ന വയർ A mu 0 ഓവർ 4 പൈ ഇന്റഗ്രേഷൻ d l പ്രൈം ഓവർ r മൈനസ് r പ്രൈം ആയിരിക്കും ഇപ്പോൾ സ്റ്റോക്സ് സിദ്ധാന്തം ഉപയോഗിച്ച് ഒരു അടഞ്ഞ സർക്യൂട്ടിലുള്ള d l തവണയുള്ള ഒരു ഫംഗ്ഷൻ f ആ പ്രതലത്തിൽ ഇന്റഗ്രേഷൻ ചെയ്ത ds ക്രോസ് ഫീൽഡ് f ന്റെ ഗ്രേഡിയന്റിന് തുല്യമാണെന്ന് കാണിക്കാൻ കഴിയും അതിനാൽ ഒരു അടഞ്ഞ വളവിൽ ഞാൻ d l f എടുക്കുകയാണെങ്കിൽ അത് f ന്റെ d s ക്രോസ് ഗ്രേഡിയന്റിന് തുല്യമാണ് അതിനാൽ ഞാൻ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു അസൈൻമെന്റ് ചോദ്യമായി നൽകുന്നു നിങ്ങൾ പക്ഷേ ചെയ്തു കാണിക്കേണ്ടതില്ല എനിക്ക് A r എന്നത് mu 0 I ഓവർ 4 പൈ ഇന്റഗ്രൽ d l പ്രൈം ഓവർ r മൈനസ് r പ്രൈമിന് തുല്യമാണ് ഞാൻ r മൈനസ് r പ്രൈമിനെ എന്റെ f ഓഫ് r പ്രൈം ആയി എടുക്കും ഇവിടെ f ഒരു ഫംഗ്ഷൻ ആണ് ഇത് ഒരു വെക്റ്ററാണ് അതിനാൽ ഇത് mu 0 I ഓവർ 4 പൈ ഇന്റഗ്രൽ ds പ്രൈം വെക്റ്റർ ക്രോസ് ഗ്രേഡിയന്റിന്റെ പ്രൈം വേരിയബിൾ 1 നെ rമൈനസ് r പ്രൈം ഉപയോഗിച്ച് ഹരിക്കുന്നതിന് തുല്യമാണ് ഞാൻ വീണ്ടും എഴുതട്ടെ A r എന്നത് mu 0 I ഓവർ 4 പൈ ഇന്റഗ്രൽ ds പ്രൈം ക്രോസ് ഗ്രേഡിയന്റ് ആയി പ്രൈം വേരിയബിൾ r മൈനസ് r ചെയ്യുന്നതിന് തുല്യമാണ് അതെന്തെന്നാൽ mu 0 I ഓവർ 4 പൈ ഇന്റഗ്രൽ ds പ്രൈം വെക്റ്റർ ക്രോസ് r മൈനസ് r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ക്യൂബ് അല്ലാതെ മറ്റൊന്നുമല്ല അതാണ് പ്രൈമിനെ ആശ്രയിച്ചിരിക്കുന്ന ഗ്രേഡിയന്റ് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഞാൻ എടുക്കുന്ന ഈ കറന്റ് ഘടികാരദിശയിൽ പോകുന്നുവെന്ന് പറയുകയാണെങ്കിൽ എല്ലായിടത്തും d s ഞാൻ അകത്തേക്ക് പോകുന്നതുപോലെ എടുക്കുന്നു അതിനാൽ ഇത് എന്റെ വലതു കൈ കൺവെൻഷൻ നൽകുന്നു Ar04πIds×r rr r304πIds×r rr r3 ഇപ്പോൾ നമുക്ക് ഈ വളയം വളരെ വളരെ ചെറുതാക്കാം നിങ്ങൾ ചെറുത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം r പ്രൈമിന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലായ്പ്പോഴും r നേക്കാൾ വളരെ വളരെ കുറവാണ് അപ്പോൾ ആദ്യ ഏകദേശമെന്ന നിലയിൽ ആർ പ്രൈമിനെ അവഗണിച്ചുകൊണ്ട് എനിക്ക് A r എന്നാൽ ഇന്റഗ്രൽ mu 0 I ഓവർ 4 പൈ ds വെക്റ്റർ പ്രൈം ക്രോസ് r ഓവർ r ക്യൂബ് എന്നതിനു തുല്യമാണ് ഇവിടെ ds പ്രൈം നമ്മുടെ പ്രൈം വേരിയബിൾ ആണ് അതിനാൽ r നെ ആശ്രയിക്കുന്നില്ല ഇത് എനിക്ക് ലൂപ്പിന്റെ മൊത്തം വിസ്തീർണ്ണം നൽകുന്നു അതിനാൽ ഇത് mu 0 I ഓവർ 4 പൈ ലൂപ്പിന്റെ വിസ്തീർണ്ണം ക്രോസ് r ഓവർ r ക്യൂബ് ചെയ്യുന്നു അതിനാൽ ഞാൻ കാണിച്ചത് ഈ എല്ലാ വെക്റ്റർ ഐഡന്റിറ്റികളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറന്റ് വഹിക്കുന്ന ചെറിയ ലൂപ്പ് ഉണ്ടെങ്കിൽ A r എന്നത് mu 0 ഓവർ 4 പൈ I a ക്രോസ് r ഓവർ r ക്യൂബ്ഡ് ആയി നൽകുന്നു ഇവിടെ r എന്നത് ലൂപ്പിൽ നിന്നുള്ള ദൂരമാണ്